നമസ്കാരം സർവീസ് മാർക്കറ്റിംഗ് വിത്ത് എ പ്രാക്ടിക്കൽ അപ്പ്രോച്ചിന്റെ സെഷനിലേക്ക് സ്വാഗതം എന്റെ പേര് ഡോ ബിപ്ലബ് ദത്ത എന്റെ കോൺടാക്റ്റ് വിശദാംശങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് അയയ്ക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അവയ്ക്ക് കഴിയുന്നത്ര ഉത്തരം നൽകുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ് അതിനാൽ മാനേജിങ് സർവീസ് റിക്കവറി എന്ന ഈ പാഠം നമ്മൾ നോക്കുന്നു ഇപ്പോൾ എന്താണ് സർവീസസ് റിക്കവറി മുമ്പത്തെ പാഠങ്ങളിൽ സേവനങ്ങളുടെ ഗുണനിലവാരത്തെയും മൂല്യ വിതരണത്തെയും കുറിച്ച് നമ്മൾ പഠിച്ചു ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്തുന്നതിനും നിലനിർത്തുന്നതിനും ശരിയായ സേവനങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്നിരുന്നാലും സേവനങ്ങൾ നൽകുന്നതിൽ നമ്മൾ തെറ്റുകൾ വരുത്തിയേക്കാം അതിന്റെ ഫലമായി അതൃപ്തിയുള്ള ഉപഭോക്താക്കൾ ഉണ്ടാകുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ നമ്മുടെ സേവനം ഉപേക്ഷിക്കുകയോ എതിരാളികളിൽ നിന്ന് വാങ്ങൽ ആരംഭിക്കുകയോ ചെയ്യാതിരിക്കാൻ സേവന ഫലങ്ങൾ എത്രയും വേഗം നൽകേണ്ടതുണ്ട് ഈ പ്രക്രിയയെ സേവന വീണ്ടെടുക്കൽ എന്ന് വിളിക്കുന്നു ഇനിപ്പറയുന്ന വിഭാഗത്തിൽ ഇത് വിശദമായി വിവരിച്ചിരിക്കുന്നു അതിനാൽ സേവനങ്ങൾ വീണ്ടെടുക്കുന്നതിന് നിങ്ങൾ സേവനത്തിൽ ഒരു തെറ്റ് വരുത്തി ഉപഭോക്താവ് അതിനെക്കുറിച്ച് പരാതിപ്പെട്ടു അതിനാൽ ആ തെറ്റ് വീണ്ടെടുക്കാനും ഉപഭോക്താവിന് ഒരു പരിഹാരം നൽകാനും നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും അതുവഴി ഉപഭോക്താവ് നിങ്ങളുടെ പരിസരത്ത് നിന്ന് സന്തോഷത്തോടെയല്ലെങ്കിലും സംതൃപ്തമായി പോകുന്നു അപ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് ഉപഭോക്താവിനെ ശ്രദ്ധയോടെ കേൾക്കുകയും പിശകിന്റെ വ്യാപ്തിയും പ്രത്യാഘാതങ്ങളും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ആദ്യ പടി പ്രശ്നത്തിന്റെ കാരണം വിശദീകരിക്കുകയും ഉപഭോക്താവിന് ഉണ്ടായ ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുകയും ചെയ്യുക പ്രശ്നത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉപഭോക്താവ് പ്രശ്നത്തിന് ഒരു പരിഹാരമായി എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് രേഖപ്പെടുത്തുക യുക്തിസഹമല്ലെങ്കിൽ അഭ്യർത്ഥന സ്വീകരിച്ച് ഉപഭോക്താവിനെ താമസിപ്പിക്കുക ഉപഭോക്താവിന് അവന്റെഅവളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ചോയ്സുകൾ നൽകുക ഉപഭോക്താവിന് ഉണ്ടാകുന്ന അസൌകര്യം മറയ്ക്കാൻ അധികമായി എന്തെങ്കിലും നൽകുക അതിനാൽ ഉപഭോക്തൃ പരാതി എന്നത് സേവനം മെച്ചപ്പെടുത്തുന്നതിനും ഭാവിയിൽ പിശകില്ലാത്ത ഡെലിവറി ഉറപ്പാക്കുന്നതിനുമുള്ള അവസരമാണെന്ന് നിങ്ങൾ ഓർക്കണം സേവന ഉദ്യോഗസ്ഥർ ഉപഭോക്താവിനെ അവഗണിക്കരുത് അവനെഅവളെ കാത്തിരിക്കുകയും ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒന്നും തെറ്റല്ല എന്ന മട്ടിൽ പ്രവർത്തിക്കുകയും വേണം അവർ ഉപഭോക്താവിനെ കുറ്റപ്പെടുത്തുകയോ അവരെ ഒറ്റക്ക് സഹായം കൂടാതെ കൈകാര്യം ചെയ്യാൻ വിടുകയോ ഭാഗികമായി മാത്രം സേവനങ്ങൾ വീണ്ടെടുത്ത് അവരെ തരംതാഴ്ത്തുകയോ ചെയ്യരുത് ഒരു ഉപഭോക്താവ് മറ്റ് 15 ആളുകളോട് ഒരു മോശം അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതേസമയം അയാൾഅവൾ മറ്റ് 5 ആളുകളോട് ഒരു നല്ല അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഇപ്പോൾ സേവനങ്ങൾ വീണ്ടെടുക്കുമ്പോൾ ഉപഭോക്താവ് ആ വീണ്ടെടുക്കപ്പെട്ട സേവനങ്ങളെക്കുറിച്ച് പലരോടും സംസാരിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം അവർ ഇപ്പോൾ അല്ലാത്തതിനേക്കാൾ കൂടുതൽ സന്തുഷ്ടരാണ് അതിനാൽ സേവന വീണ്ടെടുക്കൽ സേവന വിപണനക്കാരുടെ കൈകളിലെ ഒരു പ്രധാന ഉപകരണമാണ് അതിനാൽ ഉപഭോക്താക്കളെ ആനന്ദിപ്പിച്ചില്ലെങ്കിൽപോലും അവർക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയും അതിനാൽ സേവന വിപണനക്കാർ ഒരിക്കലും സേവന വീണ്ടെടുക്കൽ അവഗണിക്കരുത് അകാരണമായി ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നമുള്ള ഉപഭോക്താക്കളെ നേരിടാൻ നമ്മുടെ സേവന ഉദ്യോഗസ്ഥർക്ക് കോപ്പിങ് ആവശ്യമായി വന്നേക്കാം സേവന ഉദ്യോഗസ്ഥർ അവരെ ശ്രദ്ധിക്കുകയും ഉപഭോക്താവിനെ കഴിയുന്നിടത്തോളം ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും വേണം അവർ നയങ്ങൾ വിശദീകരിക്കുകയും ആവശ്യമെങ്കിൽ ഉപഭോക്താവിനെ വിട്ടയക്കുകയും വേണം ഉപഭോക്താവിന്റെ പെരുമാറ്റം അവരെ വ്യക്തിപരമായി ബാധിക്കുകയോ സേവനത്തിന്റെ മറ്റ് ഉപഭോക്താക്കളെ ബാധിക്കുകയോ ചെയ്യുന്നില്ലെന്ന് അവർ ശ്രദ്ധിക്കണം അതിനാൽ ഈ പാഠത്തിൽ നമ്മൾ സേവന വീണ്ടെടുക്കൽ പ്രശ്നം ചർച്ച ചെയ്തു അടുത്ത പാഠത്തിൽ സേവന ഉപഭോക്താക്കൾക്ക് നിരുപാധികമായ സേവന ഗ്യാരണ്ടികൾ നൽകുന്ന പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യും ശ്രവിച്ചതിനു നന്ദി ഒരു നല്ല ദിനം ആശംസിക്കുന്നു